യൂണിവേഴ്സിറ്റീസ് പേറ്റന്റ്സ് ഇന്ത്യൻ സർവകലാശാലകൾ എങ്ങനെയാണ് പേറ്റന്റുകൾ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിംഗ് ഫ്രെയിംവർക്ക് അഥവാ എൻ ഐ ആർ എഫ് റാങ്കിംഗ് സ്ഥാപനങ്ങൾക്കുള്ള രീതിശാസ്ത്രത്തിന്റെ ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് ചെയ്യുന്നത് ഇന്ത്യാ ഗവൺമെന്റാണ് അദ്ധ്യാപനം പഠനം വിഭവങ്ങളുടെ ഉപയോഗം ഗവേഷണവും പ്രൊഫഷണൽ രീതികളും ബിരുദ ഫലങ്ങൾ ഔട്ട്റീച്ചും ഉൾപ്പെടുത്തലും പ്രത്യക്ഷബോധം മുതലായവയാണ് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിന് ഉപഗോയിക്കുന്ന വ്യത്യസ്തമായ മാനദണ്ഡങ്ങൾ ഇത് എല്ലാ വിദ്യാഭാസ സ്ഥാപനങ്ങൾക്കും ബാധകമായ ഓവർ ഓൾ റാങ്കിങ് ആണ് എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് പ്രതേക റാങ്കിംഗ് ഉണ്ട് ഇത് 2018ലെ റാങ്കിങ്ങാണ് മദ്രാസിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഒന്നാമതായും തുടർന്ന് ആദ്യ 5 റാങ്കുകളിൽ ബോംബെ ഡൽഹി ഖരഗ്പൂർ എന്നീ ഐ ഐ ടി കളുമാണ് എന്ന് നിങ്ങൾക്ക് മനസിലാകും ഒരു സ്കോർ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം ആ സ്കോറിനനുസരിച്ചായിരിക്കും റാങ്ക് ഇത് വെബ്സൈറ്റിൽ നിന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് ആണ് നിങ്ങൾ വെബ്സൈറ്റിലെ പി ഡി എഫ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ റാങ്കിംഗിൽ ഒരു സർവകലാശാല അല്ലെങ്കിൽ ഒരു വിദ്യാഭാസ സ്ഥാപനം ഏത് തരത്തിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുന്നു എന്നതിന്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിയും അതിനാൽ സർവകലാശാലകൾക്ക് പോയിന്റുകൾ ലഭിക്കുന്നതും റാങ്കിങ്ങിനായി കണക്കാക്കുന്നതുമായ മാനദണ്ഡങ്ങളിലൊന്നാണ് ഗവേഷണവും തൊഴിൽപരമായ ശീലങ്ങളും പ്രസിദ്ധീകരണങ്ങൾ അവയുടെ ഗുണനിലവാരം പേറ്റന്റുകൾ പ്രോജക്റ്റുകൾ എന്നിവയ്ക്കുള്ള സംയോജിത അളവുകോൽ ഇതിൽ ഉൾപ്പെടുന്നു പേറ്റന്റുകൾ ഒരു പങ്ക് വഹിക്കുന്നതായി ഡാറ്റാ ഷീറ്റുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും ഉദാഹരണത്തിന് പേറ്റന്റുകളും റാങ്കിംഗും തമ്മിലുള്ള ലിങ്ക് ഈ ഡാറ്റ ഷീറ്റുകളിൽ കാണാം ഒന്നാം റാങ്കിലുള്ള ഐ ഐ ടി മദ്രാസിന്റെ ഡാറ്റാ ഷീറ്റ് കാണിക്കുന്നത് കഴിഞ്ഞ 3 കലണ്ടർ വർഷങ്ങളിൽ അനുവദിച്ച പേറ്റന്റുകളുടെ എണ്ണം 54 ആണെന്നും പ്രസിദ്ധീകരിച്ച പേറ്റന്റുകളുടെ എണ്ണം 395 ആണെന്നും പേറ്റന്റിലൂടെയുള്ള വരുമാനം 6 കോടിയിൽ കൂടുതലാണെന്നുമാണ് പത്താം സ്ഥാനത്തുള്ള ഐ ഐ ടി കാൺപൂരിന് അനുവദിക്കപ്പെട്ടത് 29 പേറ്റന്റുകളും പ്രസിദ്ധീകരിക്കപ്പെട്ടത് 203 പേറ്റന്റുകളും അവരുടെ വരുമാനം 81 ലക്ഷവുമാണ് പതിനഞ്ചാം റാങ്ക് ലഭിച്ചിരിക്കുന്ന എൻ ഐ ടി റൂർക്കേലയ്ക്ക് അനുവദിക്കപ്പെട്ട പേറ്റന്റുകളൊന്നുമില്ല പക്ഷേ അവർക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ട 3 പേറ്റന്റുകൾ ഉണ്ട് ഇരുപതാം റാങ്കിലുള്ള ഥാപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അനുവദിക്കപ്പെട്ട പേറ്റന്റ് ഒരെണ്ണമാണ് തീർപ്പാക്കാത്ത 11 എണ്ണമുണ്ട് അവരുടെ പേറ്റന്റുകൾ ഉപയോഗിച്ച് 2 കോടിയിലധികം തുക അവർ വരുമാനമായിട്ടുണ്ടാക്കിയിട്ടുണ്ട് എൻ ഐ ആർ എഫ് സമ്പ്രദായത്തിൽ പേറ്റന്റുകളും റാങ്കിംഗും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഇതിലൂടെ മനസിലാക്കാൻ കഴിയും ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്തുന്നതിനും അംഗീകരിക്കുന്നതിനും നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിൽ പേറ്റന്റുകൾ ഉപയോഗിക്കുന്നു ഗവേഷണ നവീകരണവും വിപുലീകരണവും വിശകലനം ചെയ്യാൻ ഒരു ഗുണനിലവാര സൂചക ചട്ടക്കൂടും അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ അവർ നോക്കുന്ന ഘടകങ്ങളിലൊന്ന് ലഭിച്ച പേറ്റന്റുകളുടെ എണ്ണവും മാറ്റങ്ങളുണ്ടാക്കാൻ കഴിയുന്ന വ്യവസ്ഥ അവിടെയുണ്ടോ എന്നതുമാണ് യു ജി സി യും എ ഐ സി ടി ഇ തുടങ്ങിയ റെഗുലേറ്ററി ബോഡികളും പേറ്റന്റുകളുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട് ഐ പി ആർ ഒരു ഇലക്ടീവ് കോഴ്സായി നൽകാൻ യു ജി സി ഇപ്പോൾ സർവകലാശാലകളോടും അനുബന്ധ കോളേജുകളോടും ആവശ്യപ്പെടുന്നുണ്ട് എ ഐ സി ടി ഇ അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട പ്രക്രിയകളെ കുറിച്ച് പരാമർശിക്കുന്ന ഹാൻഡ്ബുക്കിൽ ഐ പി ആർ സെൽ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ഐ പി ആർ സെൽ ആവശ്യമാണ് കൂടാതെ സാങ്കേതിക സ്ഥാപനങ്ങൾക്കുള്ള ഐ പി ആറുമായി ബന്ധപ്പെട്ട ഒരു മാർഗ്ഗനിർദ്ദേശവും എ ഐ സി ടി ഇ പുറപ്പെടുവിച്ചിട്ടുണ്ട്